നമ്മൾ റൂട്ടിങ്ങ്നെ പറ്റിയുള്ള ചർച്ച തുടരുകയാണ് ഏരിയ അഥവാ ഗ്രിഡ് റൂട്ടിങ്ങിനെ പറ്റി നാം പഠിച്ചു കഴിഞ്ഞു ഗ്രിഡ് അഥവാ ഏരിയ റൂട്ടിങ് ഉപയോഗിച്ചു നമ്മക് ഡിമെൻഷനാൽ ഗ്രിഡിലുള്ള പോയിന്റുകളെ തടസങ്ങളുണ്ടെങ്കിലും കണക്ട് ചെയ്യാം നമ്മൾ ഗ്ലോബൽ റൂട്ടിങ്ങിനെ പറ്റിയും പഠിച്ചു അവിടെ നമ്മൾ ബ്ലോക്കുകളെ വച്ചിട്ടു ചാനലുകളും റൂട്ടിംഗ് റീജിയനുകളും നിർണയിച്ചു അതിനാൽ എല്ലാ നെറ്റുകൾക്കും ആ കണക്ഷൻ പൂർത്തീകരിക്കാൻ ആവശ്യമായ ഏകദേശ റൂട്ടിംഗ് റീജിയനുകളെ കണ്ടുപിടിക്കണം അത് കഴിഞ്ഞാൽ നമ്മ ഓരോ റൂട്ടിംഗ് റീജിയനുകളെ എടുത്ത് ഇന്റർകോണക്ഷന് പൂർത്തിയാകാൻ ശ്രമിക്കും അത് ഒന്നുകിൽ ഒരു ചാനലോ അല്ലെങ്കിൽ ഒരു സ്വിച്ചിബോസ്ക്കോ ആകാം ഇതാണ് നമ്മ ഇനി പഠിക്കാൻ പോകുന്ന ഡീറ്റൈൽഡ് റൂട്ടിംഗ് നെ അതിനാൽ പ്രഭാഷണത്തിന്റെ വിഷയം ഡീറ്റൈൽഡ് റൂട്ടിംഗ് ആണ് ഇത് അതിന്റെ ആദ്യ ഭാഗമാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നു വച്ചാൽ ഡീറ്റൈൽഡ് റൂട്ടിങ്ന്റെ സ്കോപ്പ് എന്നത് റൂട്ടിങ് റീജിയൻസ് ഇന്റർകണ്ണെക്ട ചെയ്യാൻ വേണ്ടിയുള്ള ജോമെട്രിക് ലേഔട്ട് തീരുമാനിക്കുക എന്നത് ആണ് ചില വ്യക്തമായ ആവശ്യകതകൾ ഉണ്ട് 2 വ്യത്യസ്ത വലകൾ അവ ഒരേ ലെയറിൽ വിഭജിക്കാൻ പാടില്ല അല്ലാത്തപക്ഷം 2 വലകൾക്കിടയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അങ്ങനെയുണ്ടെങ്കിൽ 2 വ്യത്യസ്ത വലകൾ ഉണ്ടെങ്കിൽ അവ വിഭജിക്കാത്ത ലൈൻ സെഗ്മെന്റുകൾ ഉപയോഗിച്ച് വിഭജിക്കാത്ത രീതിയിൽ സ്ഥാപിക്കണം അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രശ്നം പരിഹരിക്കുന്നത് ഒരു സമയം ഒരു പ്രദേശം ചില പ്രത്യേക ക്രമത്തിൽ പരിഗണിച്ചാണ് അതിനാൽ ഡീറ്റൈൽഡ് റൂട്ടിംഗിന്റെ ഘട്ടം ആഗോള റൂട്ടിംഗിനെ പിന്തുടരും ഇത് ചെയ്തുകഴിഞ്ഞാൽ കോംപാക്ഷൻ പോലുള്ള മറ്റ് ചില ഘട്ടങ്ങൾ നമുക്ക് പിന്നീട് കാണാൻ കഴിയും ഒരു കൂട്ടം ബ്ലോക്കുകൾ സ്ഥാപിച്ച ശേഷം സാഹചര്യം ഇതുപോലെ കാണപ്പെടാം അതിനാൽ ഈ ചതുരാകൃതിയിലുള്ള ബോക്സുകൾ ബ്ലോക്കുകളും ചെറിയ സർക്കിളുകൾ ബന്ധിപ്പിക്കേണ്ട പിന്നുകളുമാണ് ഗ്ലോബൽ റൂട്ടിംഗ് നിങ്ങൾക്ക് ഒരു ഏകദേശ റൂട്ട് നൽകും ഉദാഹരണത്തിന് ഈ പിൻ ഈ പിന്നിലേക്ക് കണക്ട് ചെയ്യണം ഇതാണ് ഏകദേശ റൂട്ട് ഇതൊരു ഏകദേശ റൂട്ടാണ് ഇതുപോലുള്ള മറ്റൊരു ഏകദേശ റൂട്ടാണിത് അതിനാൽ ഗ്ലോബൽ റൂട്ടിംഗ് നിങ്ങൾക്ക് പിന്തുടരേണ്ട റൂട്ടിംഗ് പ്രദേശങ്ങളുടെ ക്രമം നൽകും എന്നാൽ നിങ്ങൾ വിശദമായ റൂട്ടിംഗിൽ പ്രവേശിച്ചുകഴിഞ്ഞാൽ ഈ ഓരോ വലകൾക്കും കൃത്യമായ കണക്ഷൻ ഘട്ടം ഘട്ടമായി വയറുകളുടെ തിരശ്ചീനവും ലംബവുമായ സെഗ്മെന്റുകളുടെ ജ്യാമിതീയ ലേഔട്ടുകൾ സാധാരണയായി അവ ചെയ്യേണ്ടത് അന്തിമമാക്കുക അല്ലെങ്കിൽ പരിഹരിക്കുക ഇതാണ് വിശദമായ റൂട്ടിംഗിന്റെ വ്യാപ്തി അതിനാൽ വിശദമായ റൂട്ടിംഗ് ചെയ്തുകഴിഞ്ഞാൽ റൂട്ടിംഗിന്റെ കാര്യത്തിൽ എന്റെ ലേഔട്ട് പൂർത്തിയായി എന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ ഇപ്പോൾ എനിക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം ഇത് ഒരു പെട്ടെന്നുള്ള റീക്യാപ്പ് മാത്രമാണ് ഗ്ലോബൽ റൂട്ടിംഗിന് ശേഷം വിശദമായ റൂട്ടിംഗിന്റെ പ്രശ്നം പരിഗണിക്കുന്നു ഇപ്പോൾ മനസ്സിലാക്കാൻ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ ഉണ്ട് ചില ഉദാഹരണങ്ങളുടെ സഹായത്തോടെ ഈ ആശയങ്ങൾ വിശദീകരിക്കാൻ ഞാൻ ശ്രമിക്കും ഗ്ലോബൽ റൂട്ടിംഗ് സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ മുഴുവൻ റൂട്ടിംഗ് മേഖലയും അല്ലെങ്കിൽ ചിപ്പിൽ ലഭ്യമായ സ്ഥലവും സാധാരണയായി ദീർഘചതുരാകൃതിയിലുള്ള റൂട്ടിംഗ് മേഖലകളായി വിഭജിച്ചിരിക്കുന്നു നമ്മൾ സാധാരണയായി അവയെ r1 r2 r3 എന്ന് വിളിക്കുന്നു ഇവിടെ നമുക്ക് റൂട്ടിംഗ് നടപ്പിലാക്കാൻ കഴിയുന്ന വിവിധ പ്രദേശങ്ങൾ ഇപ്പോൾ ഓരോ നെറ്റിനും നമ്മൾ ബന്ധപ്പെട്ട ടെർമിനൽ കണക്ട് ചെയ്യണം അതിനാൽ ടെർമിനലുകൾ ബന്ധിപ്പിക്കുന്നതിന് ഈ വലയുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ ബന്ധിപ്പിക്കുന്നതിന് കടന്നുപോകേണ്ട മേഖലകളായ ഉപ മേഖലകളുടെ ഒരു ശ്രേണി ഞങ്ങൾ നിർണ്ണയിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ടെർമിനലുകളുടെ ഒരു ആശയം ഉണ്ട് ഇത് ഞാൻ ഉടൻ തന്നെ ചിത്രീകരിക്കും ഒരു റൂട്ടിംഗ് മേഖലയുടെ നിശ്ചിത അതിർത്തി കടക്കുകയാണെങ്കിൽ ഫ്ലോട്ടിംഗ് ടെർമിനലുകൾ എന്ന് വിളിക്കപ്പെടുന്ന ഒന്ന് ഉണ്ടായിരിക്കുമെന്ന് അത് പറയുന്നു ഫ്ലോട്ടിംഗ് ടെർമിനൽ എന്നാൽ കൃത്യമായ സ്ഥാനമോ സ്ഥലമോ ഇതുവരെ നിശ്ചയിച്ചിട്ടില്ലാത്ത ടെർമിനലുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് എന്നാൽ ആ പ്രത്യേക റൂട്ടിംഗ് മേഖലയുടെ റൂട്ടിംഗ് പൂർത്തിയായാൽ ഈ ഫ്ലോട്ടിംഗ് ടെർമിനലുകൾസ്ഥിര ടെർമിനലുകളായി മാറും അവരുടെ കൃത്യമായ കോർഡിനേറ്റ് അല്ലെങ്കിൽ ലൊക്കേഷൻ അന്തിമമാക്കുകയോ പരിഹരിക്കുകയോ ചെയ്യും ഇതാണ് അർത്ഥമാക്കുന്നത് ഈ ഉപമേഖല റൂട്ട് ചെയ്തുകഴിഞ്ഞാൽ ഫ്ലോട്ടിംഗ് പോയിന്റുകൾ ഫിക്സഡ് ടെർമിനലുകളായി മാറും ഇപ്പോൾ ഞാൻ ഇത് വളരെ വേഗം വിശദീകരിക്കും എന്നാൽ അതിനുമുമ്പ് നമുക്ക് റൂട്ടിംഗ് മേഖലകളെക്കുറിച്ച് സംസാരിക്കാം ഇപ്പോൾ അവയുടെ ജ്യാമിതീയവും തുടർച്ചയായ റൂട്ടിംഗ് പ്രദേശങ്ങൾ തമ്മിലുള്ള ബന്ധവും അനുസരിച്ച് റൂട്ടിംഗ് മേഖലകൾ 2 തരത്തിലാകാം അവയെ ചാനലുകൾ അല്ലെങ്കിൽ സ്വിച്ച് ബോക്സുകൾ എന്ന് വിളിക്കുന്നു അപ്പോൾ എന്താണ് ഒരു ചാനൽ നമുക്ക് 2 സമാന്തര അരികുകളുള്ള ഒരു പ്രദേശം പോലെയാണ് ഒരു ചാനൽ അവ തിരശ്ചീനമോ ലംബമോ ആകാം കൂടാതെ ഈ സമാന്തര അരികുകളുടെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ചില പിന്നുകളും ഉണ്ട് ഈ അരികുകളിൽ ചില നിശ്ചിത പോയിന്റുകൾ അല്ലെങ്കിൽ ടെർമിനലുകൾ പരസ്പരം ബന്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ ചുമതല ഇപ്പോൾ സമാന്തര അതിർത്തിക്കുള്ളിലെ ഈ പ്രദേശത്തെ ചാനൽ എന്ന് വിളിക്കുന്നു അതിനാൽ ഞങ്ങൾ നിരവധി ചാനൽ റൂട്ടിംഗ് ടെക്നിക്കുകൾ നോക്കും ഒരു ദീർഘചതുരാകൃതിയിലുള്ള പ്രദേശത്തിന്റെ 4 വശങ്ങളിലും ഈ ടെർമിനൽ നിലനിൽക്കാൻ കഴിയുന്ന ചില സന്ദർഭങ്ങളിൽ കൂടുതൽ സങ്കീർണ്ണമായ സാഹചര്യം ഉണ്ടാകാം അതിനാൽ ഇതിനെ സ്വിച്ച്ബോക്സ് എന്ന് വിളിക്കുന്നു സ്വിച്ച്ബോക്സ് റൂട്ടിംഗ് സാധാരണയായി ചാനൽ റൂട്ടിംഗിനെക്കാൾ സങ്കീർണ്ണമാണ് ഒരു സ്വിച്ച് ബോക്സിന് ഇത് ഒരു ഉദാഹരണം മാത്രമാണ് അതിനാൽ ഞാൻ ചില സാധാരണ പരസ്പര ബന്ധങ്ങൾ കാണിച്ചു ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾ കാണുന്നു ഇവിടെ ഞാൻ വ്യത്യസ്ത നിറങ്ങളിലുള്ള കണക്ഷനുകൾ കാണിച്ചിരിക്കുന്നു നിറങ്ങൾ അർത്ഥമാക്കുന്നത് ഈ കണക്ഷനുകൾ വ്യത്യസ്ത ലോഹ പാളികളിൽ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് സാധാരണയായി ഇവയെല്ലാം ലോഹ പാളികളിലാണ് ചെയ്യുന്നത് അതിനാൽ ഈ നീലയും ഈ തവിട്ടുനിറത്തിലുള്ള വരകളും 2 വ്യത്യസ്ത ലോഹ പാളികളിലും അവയുടെ ജംഗ്ഷനുകളിലുമാണ് ജംഗ്ഷനുകൾ അർത്ഥമാക്കുന്നത് 2 ലെയറുകൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഒരു തിരശ്ചീനവും ലംബവുമായ പാളികൾക്കിടയിലുള്ള ഈ ജംഗ്ഷനുകളെ 2 ലെയറുകളിലെ പോയിന്റുകൾക്കിടയിലുള്ള കണക്ഷൻ വഴി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോൺടാക്റ്റ് കണക്ഷൻ എന്ന് വിളിക്കുന്നു അതിനാൽ നീലയും തവിട്ടുനിറത്തിലുള്ള വരയും എവിടെ കണ്ടുമുട്ടിയാലും അവിടെ ഒരു വഴി കണക്ഷൻ ഉണ്ടെന്ന് അത് സൂചിപ്പിക്കുന്നു അതിനാൽ ഇവ ചാനലുകളും സ്വിച്ച്ബോക്സുകളുമാണ് ഇനി നമുക്ക് ഈ വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം റൂട്ടിംഗ് പ്രദേശങ്ങളുടെ ആപേക്ഷിക ക്രമം അനുസരിച്ച് അവയുടെ റൂട്ടിംഗ് ക്രമം ചില പ്രത്യേക രീതിയിൽ നിർണ്ണയിക്കാവുന്നതാണ് 1 2 3 എന്നീ 3 റൂട്ടിംഗ് മേഖലകളുള്ളതും ഇവയാണ് ബ്ലോക്കുകളുമുള്ള ഒരു സാഹചര്യം നിങ്ങൾ പരിഗണിക്കുന്നത് പോലെ അതിനാൽ അതിരുകളിൽ പിന്നുകൾ ഉണ്ടാകും അതിനാൽ ഇവിടെ പറയുന്നത് 1 2 എന്ന ക്രമത്തിൽ ആദ്യം വലകൾ റൂട്ട് ചെയ്യണം അതിനുശേഷം മാത്രമേ 3 ആകൂ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ഒരു ഉദാഹരണത്തിന്റെ സഹായത്തോടെ അത് വിശദീകരിക്കാൻ ശ്രമിക്കാം നമുക്ക് ഇതേ ഉദാഹരണം എടുക്കാം ഈ ബ്ലോക്കുകളുള്ള ഈ ചതുരാകൃതിയിലുള്ള പ്രദേശം എനിക്കുണ്ടെന്ന് കരുതുക ഇത് ഒരു ബ്ലോക്ക് ഇത് ഒരു ബ്ലോക്ക് ഇത് ഒരു ബ്ലോക്ക് ഇത് ഒരു ബ്ലോക്കാണ് ഇപ്പോൾ കണക്ഷനായി നമുക്ക് ഒരു പ്രത്യേക ഉദാഹരണം എടുക്കാം ഇവിടെ പോയിന്റ് 1 എന്ന ടെർമിനൽ ഉണ്ടെന്ന് കരുതുക ഇവിടെ 1 ബന്ധിപ്പിക്കുന്ന ടെർമിനൽ പോയിന്റുണ്ട് കൂടാതെ ഇവിടെ 1 ഉണ്ട് അതിനാൽ നമ്മൾ ബന്ധിപ്പിക്കേണ്ട 3 പോയിന്റുകൾ ഇവയാണ് അതുപോലെ നമുക്ക് ഇവിടെ ഒരു പോയിന്റ് 2 ഉണ്ട് ഇവിടെ ഒരു പോയിന്റ് 2 ഉണ്ട് ഒരുപക്ഷേ ഇവിടെയും പോയിന്റ് 2 ഉണ്ടായിരിക്കാം ക്രോസ് ചെയ്യാത്ത മറ്റ് പോയിന്റുകൾ ഉണ്ടാകാം ഉദാഹരണത്തിന് ഇവിടെ 3 ഇവിടെ 3 എന്നിവ ഉണ്ടാകാം അതിനാൽ ഞങ്ങൾ ഇത് നിങ്ങൾ ഓർക്കുന്ന സാഹചര്യം ഞാൻ കാണിക്കുന്നു ഞങ്ങൾ ചാനൽ നമ്പർ 1 ൽ വിളിച്ചത് പോലെയാണ് ഇത് ഞങ്ങൾ ചാനൽ നമ്പർ 3 എന്ന് വിളിച്ചത് ഇത് ചാനൽ നമ്പർ 2 ആയിരുന്നു ആദ്യം ചാനൽ 1 ഉം 2 ഉം ശേഷം ചാനൽ 3 റൂട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ എന്തുകൊണ്ട് എന്ന് നോക്കാം ഞാൻ ആദ്യം ഒരു ചാനൽ 3 പരിഗണിക്കുമെന്ന് കരുതുക ഇത് എന്റെ ചാനൽ 3 ആണ് ഇതാണ് എന്റെ ചതുരാകൃതിയിലുള്ള പ്രദേശം ഇത് മുഴുവൻ ചാനൽ 3 ആണ് ഇപ്പോൾ ചാനൽ 3 ൽ ഒരു ചാനലിന്റെ നിർവചനം എന്താണ് 2 ബൌണ്ടറികൾ ഉണ്ടാകും 2 ബൌണ്ടറികളിലെ ചില സ്ഥലങ്ങളിൽ പിന്നുകൾക്കൊപ്പം സമാന്തര അതിരുകൾ ഇപ്പോൾ നിങ്ങൾ ഈ വശത്ത് ഈ 1 2 എന്നിവയുടെ സ്ഥാനം ഉറപ്പിച്ചതായി കാണുന്നു എന്നാൽ ഇവിടെ ഈ 1 2 എന്നിവയുടെ കാര്യമോ അതിനാൽ ഇത് ഈ വരിയിൽ എവിടെയും ആകാം അതിനാൽ ഈ 1 2 വലകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല അതുകൊണ്ടാണ് ഈ അതിർത്തിയിൽ ഈ 1 ഉം 2 ഉം ഫ്ലോട്ടിംഗ് ടെർമിനലുകൾ എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ആദ്യം net 1 റൂട്ട് ചെയ്യുന്നു എന്ന് കരുതുക അതിനാൽ ഞാൻ ഒരു ഉദാഹരണം നൽകുന്നു നമ്മൾ ഇത് ഇതുപോലെ റൂട്ട് ചെയ്യുന്നു ഒന്ന് ലംബ കണക്ഷനിലേക്കും ഒരു തിരശ്ചീന കണക്ഷനിലേക്കും ഇതാണ് ആദ്യത്തെ കണക്ഷൻ അപ്പോൾ 3 ബന്ധിപ്പിക്കും 3 ഇതുപോലെ ബന്ധിപ്പിക്കുമെന്ന് നമുക്ക് പറയാം 3 കണക്റ്റ് ചെയ്തിരിക്കുന്നു തുടർന്ന് 2 2 നെ ഇതുപോലെ ബന്ധിപ്പിക്കുമെന്ന് നമുക്ക് പറയാം ഈ കണക്ഷൻ ചെയ്തുവെന്ന് കരുതുക ഇപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ 1 നെറ്റ് 1 നോക്കുക ഇപ്പോൾ net 1 ഇവിടെ വരും ഇത് 1 ഉം net 2 ഉം ആയിരിക്കും ഇത് നിരത്തിക്കഴിഞ്ഞാൽ net 2 ഈ പോയിന്റിലൂടെ തിരശ്ചീനമായി വരും ഇത് 2 ആയിരിക്കും ഇപ്പോൾ നിങ്ങൾ കാണുന്നു ഇപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ടെർമിനലും 2 ഉം നിർവചിച്ചിട്ടില്ല ഇപ്പോൾ ഇത് 1 ആണ് ഇത് 2 ആണ് അതിനാൽ 1 പൂർത്തിയായതിന് ശേഷം നമുക്ക് 3 ലേക്ക് നീങ്ങാം 3 ൽ സമാനമായ രീതിയിൽ റൂട്ടിംഗ് പൂർത്തിയാക്കാം ഉദാഹരണത്തിന് ഇവിടെ നിന്ന് 1 ബന്ധിപ്പിക്കുന്നതിന് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരിക്കാം നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരിക്കാം തുടർന്ന് നമുക്ക് ഇവിടെ ഒരു ലൈൻ ഉണ്ടായിരിക്കാം അതുപോലെ 2 ന് ഇവിടെയും ഇവിടെയും ഇവിടെയും കണക്ഷനും നമുക്ക് പറയാം അതിനാൽ ഈ രീതിയിൽ നമുക്ക് കണക്ഷൻ പൂർത്തിയാക്കാൻ കഴിയും വാസ്തവത്തിൽ ഈ ഉദാഹരണം നമ്മൾ 1 ഉം 2 ഉം റൂട്ട് ചെയ്യേണ്ടത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറയും ആദ്യം പിന്നെ 3 ശരി ഇത് ഈ പ്രത്യേക സാഹചര്യത്തിനാണ് ഇതൊരു സ്ലൈസിംഗ് പ്ലേസ്മെന്റ് ടോപ്പോളജിയാണ് എന്നാൽ എനിക്ക് ഈ രണ്ടാമത്തെ സാഹചര്യം ഉണ്ടെന്ന് കരുതുക അത് ഒരു നോൺ സ്ലൈസ് ചെയ്യാവുന്ന ഫ്ലോർ പ്ലാനോ വീൽ എന്ന് വിളിക്കപ്പെടുന്നതോ ആണ് അതിനാൽ ഇവിടെ നിങ്ങൾ ഒരിക്കൽ പരിശോധിച്ചാൽ എല്ലാ പ്രദേശങ്ങളും വീണ്ടും ചില പ്രത്യേക ക്രമത്തിൽ റൂട്ട് ചെയ്യാൻ കഴിയില്ല കാരണം മറ്റ് ചില ദിശകളിൽ നിന്ന് ടെർമിനലുകൾ വരാം ഉദാഹരണമായി പറയുക ഞാൻ 1 ൽ തുടങ്ങുന്നു ഈ 1 ന് ഇടത്തുനിന്നും വലതുഭാഗത്തുനിന്നും വരുന്ന ടെർമിനലുകൾ ഉണ്ടായിരിക്കാം ചില ഫ്ലോട്ടിംഗ് ടെർമിനലുകളും ചില ടെർമിനലുകളും ഇവിടെ വരുന്നു ഇവിടെ ഫ്ലോട്ടിംഗ് ടെർമിനലുകൾ അതിനാൽ ഇത് ഒരു സ്വിച്ച്ബോക്സ് പോലെയായിരിക്കും അവിടെ എല്ലാ വശങ്ങളിൽ നിന്നും ടെർമിനലുകൾ വരാം ലംബമായും തിരശ്ചീനമായും മാത്രമല്ല ഈ വശത്തും ഇപ്പുറത്തും അതിനാൽ നിങ്ങൾ റൂട്ട് 1 ഒരിക്കൽ മറ്റൊന്നിന്റെ ക്രമം നിങ്ങൾ കണ്ടെത്തിയേക്കാം അതിനാൽ ഈ ടെർമിനലുകൾ ശരിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയും അല്ലെങ്കിൽ ഇവ ശരിയാക്കാം നിങ്ങൾക്ക് റൂട്ട് 2 ചെയ്യാം 2 ശരിയാക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൂട്ട് 3 ചെയ്യാം ഒരിക്കൽ 3 ശരിയാക്കിയാൽ നിങ്ങൾക്ക് റൂട്ട് 4 ചെയ്യാം എന്നാൽ ഇവിടെ ചില റൂട്ടിംഗ് മേഖലകൾ പരിഗണിക്കപ്പെടാം സ്വിച്ച് ബോക്സുകൾ പോലെയായിരിക്കുക ലളിതമായ ചാനലുകളല്ല ഇതാണ് വ്യത്യാസം മറ്റ് ചില റൂട്ടിംഗ് പരിഗണനകൾ ഇനിപ്പറയുന്നവയാണ് ഒന്ന് ടെർമിനലുകളുടെ എണ്ണവുമായി ബന്ധപ്പെട്ടതാണ് മിക്ക വലകളും 2 ടെർമിനൽ വലകളായിരിക്കാം അത് 2 പോയിന്റുകൾ മാത്രം ബന്ധിപ്പിക്കുന്നു എന്നാൽ ചില വലകൾ ക്ലോക്ക് പവർ എന്നിവ തീർച്ചയായും ഒരിക്കൽ വ്യക്തമാണ് എന്നാൽ ചില സർക്യൂട്ടുകളിലെ ഫാൻ ഔട്ടുകളുമായി പൊരുത്തപ്പെടുന്ന മറ്റ് കണക്ഷനുകളും ഉണ്ടാകാം ഗേറ്റിന്റെ ഔട്ട്പുട്ട് 3 വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോകാം അതിനാൽ 4 പോയിന്റുകൾ ഒരുമിച്ച് ബന്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ക്ലോക്കും പവറും 2 ഉദാഹരണങ്ങളാണ് ടെർമിനലുകൾ ബന്ധിപ്പിക്കേണ്ടതായി വന്നേക്കാം അതിനാൽ ക്ലോക്കും പവറും പ്രത്യേകം പരിഗണിക്കും കാരണം അവയ്ക്ക് വളരെ പ്രത്യേക സാങ്കേതിക വിദ്യകൾ ആവശ്യമാണ് അല്ലാത്തപക്ഷം മൾട്ടി ടെർമിനൽ വലകൾ സാധാരണയായി 2 ടെർമിനൽ വലകളായി വിഘടിപ്പിക്കുകയും പിന്നീട് അവ ഓരോന്നായി റൂട്ട് ചെയ്യുകയും ചെയ്യുന്നു 7 പരിഗണന വിയാസിന്റെയോ ലൈനുകളുടെയോ വീതിയിൽ റേറ്റുചെയ്തിരിക്കുന്നു വൈദ്യുതിയും ഗ്രൌണ്ടും പോലെ ഉയർന്ന പ്രവാഹങ്ങൾ വഹിക്കുന്ന ചില ലൈനുകൾക്ക് കൂടുതൽ വീതി ആവശ്യമായി വന്നേക്കാം എന്നാൽ സിഗ്നലുകൾ വഹിക്കുന്നവയ്ക്ക് വീതി കുറവായിരിക്കാം അപ്പോൾ via via എന്നതിനർത്ഥം 2 സമീപത്തെ ലെയറുകളിലെ 2 പോയിന്റുകൾ തമ്മിലുള്ള കണക്ഷനാണ് വഴി എന്ന് ഞാൻ പറഞ്ഞത് ഓർമ്മിക്കുക എന്നാണ് 2 വ്യത്യസ്ത പാളികളിൽ 2 പോയിന്റുകളെ ബന്ധിപ്പിക്കുന്ന ലോഹത്തോടുകൂടിയ ഏതെങ്കിലും തരത്തിലുള്ള ദ്വാരം ഉണ്ടായിരിക്കണം ഫാബ്രിക്കേഷൻ പ്രക്രിയയിൽ ഒരു ലേഔട്ട് ഉള്ളത് നിങ്ങൾ ഓർക്കുന്ന ഒരു കാര്യം അൽപ്പം ബുദ്ധിമുട്ടാണ് അതിനാൽ വിയാകളുടെ എണ്ണം കുറയുന്നതാണ് നല്ലത് അതിനാൽ വീണ്ടും വഴി 2 തരത്തിലാകാം ഒന്ന് അടുത്തുള്ള ലെയറുകൾക്കിടയിൽ മാത്രമുള്ള പതിവ് വിയാസുകളാണ് അത് എളുപ്പമുള്ളതും അടുക്കിയിരിക്കുന്നതുമായ കണക്ഷനുകൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഒരുപക്ഷേ 2 ലയറുകളിലൂടെ കടന്നുപോകുന്ന കണക്ഷനുകളാണ് അതിനർത്ഥം നമുക്ക് കൂടുതൽ തുരന്ന് ഒരു കണക്ഷൻ ഉണ്ടാക്കണം എന്നാണ് അതിനാൽ അടുക്കിയിരിക്കുന്ന വഴികൾ കൂടുതൽ ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇതുവരെ എടുത്ത ഉദാഹരണങ്ങൾ വീണ്ടും അതിർത്തി തരങ്ങൾ അവയ്ക്ക് എല്ലാ നേർരേഖ അതിരുകളും ഉണ്ട് എന്നാൽ പൊതുവെ അവ ഏകപക്ഷീയമായിരിക്കാം ലെയറുകളുടെ എണ്ണം വ്യത്യസ്തമായിരിക്കാം വ്യത്യാസപ്പെടാം ആധുനിക സാങ്കേതികവിദ്യ അഞ്ചോ അതിലധികമോ ലെയറുകളും നെറ്റ് തരങ്ങളുമായി ബന്ധപ്പെട്ട് വീണ്ടും അനുവദിക്കുന്നു പവർ ഗ്രൌണ്ട് ലൈനുകൾ ക്ലോക്കുകൾ എന്നിവ പോലെ ചില വലകൾ വളരെ നിർണായകമാണ് അവ പ്രത്യേകമായും വളരെ ശ്രദ്ധയോടെയും അഭിസംബോധന ചെയ്യേണ്ടതുണ്ട് സിഗ്നൽ വലകൾ പോലെ അത്ര നിർണായകമല്ലാത്ത മറ്റ് വലകളും ഉണ്ടാകാം വളരെ പെട്ടെന്നുള്ള ഒരു നോട്ടം ഈ ഡയഗ്രം ഒരു N ടൈപ്പ് ട്രാൻസിസ്റ്റർ NMOS ട്രാൻസിസ്റ്റർ ഒരു PMOS ട്രാൻസിസ്റ്റർ എന്നിവയുടെ സാധാരണ CMOS ഫാബ്രിക്കേഷൻ കാണിക്കുന്നു അതിനാൽ നിങ്ങൾക്ക് ഓർക്കാം ഞങ്ങൾക്ക് ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടായിരിക്കണം അവിടെ നിങ്ങൾക്ക് ഗേറ്റും ഈ സോഴ്സും ഉണ്ട് ഇവിടെ ഗേറ്റും സോഴ്സും ഡ്രെയ്നും സോഴ്സും ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സും അതിനിടയിലുള്ള ഗേറ്റും ഗേറ്റും ഒരു ഇൻസുലേറ്റിംഗ് ലെയറിന് മുകളിൽ നിർമ്മിക്കേണ്ടതുണ്ട് അതുപോലെ പി ടൈപ്പ് ട്രാൻസിസ്റ്റർ പിഎംഒഎസിനായി ഞങ്ങൾ ഒരു എൻ വെൽ സൃഷ്ടിക്കുന്നു ഇതിനുള്ളിൽ ഞങ്ങൾ 2 പി തരം ഡോപ്പ് ചെയ്ത പ്രദേശങ്ങൾ സൃഷ്ടിക്കുന്നു ഒന്ന് സോഴ്സ് മറ്റൊന്ന് ഡ്രെയിൻ വീണ്ടും സമാനമായ രീതിയിൽ ഒരു ഗേറ്റ് അതുകൊണ്ട് ഞാൻ ഇത് കാണിക്കാൻ കാരണം ട്രാൻസിസ്റ്ററുകൾ പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ ഞാൻ മറ്റൊരു ചിത്രം വളരെ വേഗത്തിൽ കാണിക്കുന്നത് പോലെയാണ് ഇത് 2 ട്രാൻസിസ്റ്ററുകളുടെ മുകളിലെ കാഴ്ചയാണ് ഒന്ന് N ടൈപ്പ് ട്രാൻസിസ്റ്ററാണ് ഒന്ന് പി ടൈപ്പ് ട്രാൻസിസ്റ്ററാണ് അവിടെ സോഴ്സും ഡ്രെയ്നും ഒരു ലോഹത്താൽ ബന്ധിപ്പിക്കുന്നു അവയുടെ ഗേറ്റുകൾ ഒരു പോളി സിലിക്കൺ ലൈൻവഴി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ 3D കാഴ്ച ഇതുപോലെ കാണപ്പെടുന്നു ഗേറ്റ് ഇതുപോലെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് N ടൈപ്പ് ട്രാൻസിസ്റ്ററിന്റെ ഉറവിടവും ചോർച്ചയുംസോഴ്സും ഡ്രെയ്നും പി ടൈപ്പ് ട്രാൻസിസ്റ്ററിന്റെ സോഴ്സും ഡ്രെയ്നും ഇതാണ് ഈ ലോഹം ഒരു പാളി m1 ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നതുപോലെ ഈ ഉറവിടത്തെയും ഡ്രെയിനിനെയും ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ സൈഡ് വ്യൂ കണക്ഷൻ എടുക്കുന്നതിന് നിങ്ങൾ ഇതുപോലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം ഈ ഡ്രെയിനിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലൊരു കണക്ഷൻ ഉണ്ടായിരിക്കണം കണക്ഷൻ എടുക്കുന്നതിന് നിങ്ങൾ m1 പോലെയുള്ള ദ്വാരങ്ങൾ തുരക്കേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് ഇതുപോലെ ഉറവിടവുമായി ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ അത്തരം ഒന്നിലധികം കണക്ഷനുകൾ ഉണ്ടാകാം ഞാൻ പറഞ്ഞ വഴി കണക്ഷന്റെ ഉദാഹരണമാണിത് കണക്ഷൻ വഴി ഏതെങ്കിലും ജോടി പാളികൾക്കിടയിൽ നിലനിൽക്കാം അല്ലെങ്കിൽ റൂട്ടിംഗിനായി ലോഹത്തിൽ നിന്ന് ലോഹ കണക്ഷനുകളിൽ അടുത്തുള്ള ലോഹ പാളികൾ തമ്മിലുള്ള കണക്ഷനുകൾ വഴി ഞങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യമുണ്ട് റൂട്ടിംഗ് മോഡലുകളെ സംബന്ധിച്ച് മിക്ക റൂട്ടിംഗ് ടെക്നിക്കുകളെയും കുറിച്ച് നമ്മൾ സംസാരിക്കും അവ ഒരു ഗ്രിഡ് അധിഷ്ഠിത മോഡൽ ഉപയോഗിക്കുന്നു അവിടെ എല്ലാ ലൈനുകളും തുല്യ വീതിയുള്ളതായി കണക്കാക്കുകയും അവ ഗ്രിഡ് അതിരുകളിലേക്ക് വിന്യസിക്കുകയും ചെയ്യുന്നു എന്നാൽ പൊതുവേ വരികൾ ഏകപക്ഷീയമായി സ്ഥാപിക്കുകയും വീതി ഉയരം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി രൂപപ്പെടുത്തുകയും ചെയ്യാം മാത്രമല്ല ഗ്രിഡുകളുമായി വിന്യസിക്കേണ്ടതില്ല അതിനാൽ സാധാരണയായി വൈദ്യുതിയും ഗ്രൌണ്ട് നെറ്റുകളും ഈ സമീപനം പിന്തുടരുന്നു അടുത്തതായി ഞങ്ങൾ മൾട്ടി ലെയർ റൂട്ടിംഗ് നോക്കുമ്പോൾ അർത്ഥമാക്കുന്നത് ഞങ്ങളുടെ പക്കൽ 2 ലധികം ലെയറുകൾ ലഭ്യമാണ് നീല വരയും തവിട്ട് വരയും നമ്മൾ പറഞ്ഞ ഉദാഹരണങ്ങൾ പോലെ അതിനും ചില മോഡലുകൾ ഉണ്ട് അവ 2 വ്യത്യസ്ത ലോഹ പാളികളിലാണെന്ന് ഞങ്ങൾ പറഞ്ഞു എന്നാൽ പൊതുവെ 2 ൽ കൂടുതൽ ഉണ്ടാകാം 3 3 ലെയർ വളരെ ജനപ്രിയമാണ് അതിനാൽ അവിടെ നിങ്ങൾക്ക് 2 വിശാലമായ സമീപനങ്ങൾ ഉണ്ടായിരിക്കാം ഒന്ന് റിസർവ് ചെയ്യാത്തത് എന്നാൽ ഏത് നെറ്റ് സെഗ്മെന്റും മറ്റേതെങ്കിലും ലെയറുകളിൽ സ്ഥാപിക്കാൻ കഴിയും എന്നാണ് നമുക്ക് ചില നിയന്ത്രണങ്ങളുള്ള റിസർവ്ഡ് ലെയറുകളാണ് രണ്ടാമത്തേത് അത് റിസർവ് ചെയ്ത ലെയർ മോഡലാണ് ഉദാഹരണത്തിന് 2 ലെയർ കേസിൽ നിങ്ങൾക്ക് HV എന്ന് പറയാം അതിനർത്ഥം ലോഹം 1 ലെ തിരശ്ചീന കണക്ഷനുകൾ ലോഹം 2 ലെ ലംബ കണക്ഷനുകൾ അല്ലെങ്കിൽ ലോഹത്തിൽ ലംബമായ 1 ലോഹത്തിൽ തിരശ്ചീനമായ 2 നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ 2 പാളികൾ ഉണ്ട് അതിനാൽ എല്ലാ തിരശ്ചീന രേഖകളും താഴെയുള്ള മെറ്റൽ 1 ൽ ആയിരിക്കുമെന്ന് നിങ്ങൾ ഒരു കൺവെൻഷൻ ഉണ്ടാക്കുന്നു എല്ലാ ലംബ വരകളും മുകളിലുള്ള ലോഹം 2 ആയിരിക്കും 3 ലെയറുകളുടെ m1 m2 m3 ആണെങ്കിൽ നിങ്ങൾക്ക് സമാനമായ ചില കൺവെൻഷനുകൾ ഉണ്ടാകാം നിങ്ങൾക്ക് ഒന്നുകിൽ VHV m1 ൽ ലംബം m2 ൽ തിരശ്ചീനം m3 ൽ ലംബം അല്ലെങ്കിൽ വിപരീത തിരശ്ചീനവും ലംബവും തിരശ്ചീനവും ഉണ്ടായിരിക്കാം അതിനാൽ സാധാരണയായി നമ്മൾ സംസാരിക്കുന്ന മിക്ക അൽഗോരിതം ചില റിസർവ്ഡ് ലെയർ മോഡൽ പിന്തുടരുന്നതാണ് 3 ലെയർ റൂട്ടിംഗിനുള്ള ചില ഉദാഹരണങ്ങളാണിവ ഇത് HVH കാണിക്കുന്നു അവിടെ തിരശ്ചീനമായി തവിട്ടുനിറവും ലംബമായ നീലയും ഈ മൂന്നാമത്തെ തിരശ്ചീനം പച്ചയുമാണ് അതിനാൽ ഇവയാണ് 3 പാളികൾ VHV എന്നത് നമുക്ക് നീല ലംബമാണെന്നും തവിട്ട് തിരശ്ചീനമാണെന്നും പച്ചയും ലംബമാണെന്നും പറയാം വിഎച്ച്വി എന്നാൽ നിങ്ങൾക്ക് റിസർവ് ചെയ്യാത്ത ലെയർ മോഡൽ ഉണ്ടായിരിക്കാം അവിടെ നിങ്ങൾക്ക് നീല പോലെയുള്ള ഒരേ ലെയറിൽ ഒരു മുഴുവൻ നെറ്റും ഇടാൻ കഴിയും അതിനാൽ ചില സെഗ്മെന്റുകൾ തിരശ്ചീനവും ചിലത് ലംബവുമാണ് അതുപോലെ ഈ തവിട്ട് ഒരേ പാളി ഒരേ പാളിയിൽ പച്ച അതിനാൽ റിസർവ് ചെയ്യാത്ത ലെയർ മോഡൽ ഇതാണ് അർത്ഥമാക്കുന്നത് അതിനാൽ നിങ്ങൾക്ക് ഒരേ ലെയറിൽ തന്നെ ഒരു നെറ്റിന്റെ തിരശ്ചീനവും ലംബവുമായ സെഗ്മെന്റുകൾ ലേഔട്ട് ചെയ്യാൻ കഴിയും ഇപ്പോൾ അൺറിസർവ്ഡ് ലെയർ മോഡൽ കാണുക അൽഗോരിതമായി കൈകാര്യം ചെയ്യാൻ അൽപ്പം ബുദ്ധിമുട്ടായിരിക്കാം പക്ഷേ ചില വ്യക്തമായ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായും ഒരേ ലെയറിൽ ഒരു വല ഇടാൻ കഴിയുമെങ്കിൽ മറ്റൊരു ലെയറിലേക്ക് കണക്ട് ചെയ്യുന്നതിന് നിങ്ങൾക്ക് കണക്ഷൻ വഴി ഒന്നും ആവശ്യമില്ല അതിനാൽ അവിടെ വ്യക്തമായ ചില ഗുണങ്ങളുണ്ട് എന്നാൽ വീണ്ടും മിക്ക അൽഗരിതങ്ങളും അവർ പ്രശ്നത്തെ ഏതെങ്കിലും തരത്തിലുള്ള റിസർവ്ഡ് ലെയർ മോഡൽ ഉപയോഗിക്കുന്ന ഒരു തരം ലേഔട്ടിലേക്ക് ചിട്ടയായ പരിവർത്തനം ചെയ്യുന്നു അത് നമുക്ക് പിന്നീട് കാണാം ചാനൽ റൂട്ടിംഗ് എന്നത് ഞങ്ങൾ അഭിമുഖീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിലുള്ള വിശദമായ റൂട്ടിംഗ് പ്രശ്നമാണ് കാരണം ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നതോ രൂപകൽപന ചെയ്യുന്നതോ ആയ VLSI ചിപ്സ് ASIC കളിൽ ഭൂരിഭാഗവും സാധാരണ സെല്ലോ സെമി കസ്റ്റം ഡിസൈൻ രീതിയോ ആണ് ഉപയോഗിക്കുന്നത് അവിടെ സെല്ലുകൾ ഇതുപോലെ വരികളായി ക്രമീകരിച്ചിരിക്കുന്നു എനിക്ക് ഒരു നിര സെല്ലുകളുണ്ട് വ്യത്യസ്ത വീതിയിൽ ഒന്നിലധികം സെല്ലുകൾ ഉണ്ടാകാം കോശങ്ങളുടെ മറ്റൊരു നിരയുണ്ട് ഇതുപോലൊരു സെല്ലിന്റെ മറ്റൊരു നിരയുണ്ട് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും തുടർച്ചയായ 2 വരികൾക്കിടയിലുള്ള ഇടം ഇത് സ്വാഭാവികമായും ഒരു ചാനലാണ് ഇത് ഒരു തിരശ്ചീന ചാനലാണ് മുകളിൽ നിന്ന് പിന്നുകൾ വരുന്നു ഇവിടെ പിന്നുകൾ ഇവിടെ ലഭ്യമാണ് നിങ്ങൾ അവയെ ബന്ധിപ്പിക്കേണ്ടതുണ്ട് നിങ്ങൾ അവയെ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതുപോലെ ഇവിടെ പിന്നുകൾ ഉണ്ട് ഇവിടെ പിന്നുകൾ ഉണ്ട് നിങ്ങൾ അവയെ പരസ്പരം ബന്ധിപ്പിക്കേണ്ടതുണ്ട് അതിനാൽ ഈ കേസിൽ ഒരു ചാനൽ C1 ഉണ്ടാകും ഈ കേസിൽ മറ്റൊരു ചാനൽ C2 ഉണ്ടാകും അതിനാൽ പ്രശ്നം ഇവിടെ ചാനൽ റൂട്ടിംഗ് പ്രശ്നത്തിലേക്ക് പ്രത്യേകമായി ചുരുങ്ങുന്നു അതിനാൽ ഇവിടെ ചാനൽ റൂട്ടിംഗ് കേസിൽ ഞങ്ങൾ ചതുരാകൃതിയിലുള്ള പ്രദേശത്തിനുള്ളിൽ പരസ്പരബന്ധം നടത്തുന്നുവെന്ന് ഞാൻ പറഞ്ഞു ഇപ്പോൾ ചാനലിനുള്ളിൽ നമ്മൾ നിർവചിച്ച രീതിയിൽ തടസ്സങ്ങളൊന്നുമില്ല ചാനലുകൾക്കുള്ളിൽ നിങ്ങൾ സ്ഥാപിച്ച ബ്ലോക്കുകളൊന്നുമില്ല ആധുനിക ചിപ്പുകളിൽ ഭൂരിഭാഗവും ഞാൻ പറഞ്ഞതുപോലെ ഞാൻ കെട്ടിച്ചമച്ചാൽ അവിടെ ഞങ്ങൾക്ക് ചാനലുകളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ചാനൽ റൂട്ടറുകൾ ഉപയോഗിക്കുന്നത് മെച്ചം അൽഗോരിതങ്ങൾ വളരെ ആണ് ഞാൻ അർത്ഥമാക്കുന്നത് അവയുടെ വേഗതയും ഗുണനിലവാരവും കണക്കിലെടുത്ത് കാര്യക്ഷമമാണ് സ്റ്റാൻഡേർഡ് സെല്ലിൽ സാധ്യമായ ചാനലുകളുടെ വീതി ക്രമീകരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ റൂട്ടിംഗിന്റെ നൂറു ശതമാനം പൂർത്തീകരണം ഉറപ്പുനൽകുന്നു ഇത് പൊതു റൂട്ടിംഗ് കേസിൽ തീർച്ചയായും ഒരു പ്രശ്നമാണ് റൂട്ടിംഗിന്റെ നൂറ് ശതമാനം പൂർത്തീകരണം ഉറപ്പാക്കുക എന്നത് റൂട്ടിംഗിന്റെ പ്രശ്നത്തിന് ഞങ്ങൾ സാധാരണയായി തിരഞ്ഞെടുക്കുന്ന ഒരു നാഴികക്കല്ലാണെന്ന് പറയുക അതിനാൽ ചാനൽ റൂട്ടിംഗിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ചില പദങ്ങൾ ഉണ്ട് ട്രാക്ക് ട്രാക്ക് എന്നത് റൂട്ടിംഗിന് ലഭ്യമായ ഒരു തിരശ്ചീന വരിയാണ് ട്രങ്ക് ഒരു തിരശ്ചീന വയർ സെഗ്മെന്റാണ് അതിനാൽ ഒരു വല ഒന്നിലധികം ട്രങ്കുകൾ ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കാം ബ്രാഞ്ച് എന്നത് ഒരു ട്രങ്കിനെ ടെർമിനലുമായി ബന്ധിപ്പിക്കുന്ന ഒരു ലംബ വയർ സെഗ്മെന്റാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ബ്രാഞ്ച് വയർക്കിടയിലുള്ള 2 ലെയറുകൾ തമ്മിലുള്ള കണക്ഷനാണ് ഇത് അതുകൊണ്ട് നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം അതിനാൽ ഒരു ചാനൽ റൂട്ടിംഗ് പ്രശ്നം ഇവിടെയുള്ളതുപോലെ ഡയഗ്രമാറ്റിക്കായി ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ എനിക്ക് പിന്നുകളെ സൂചിപ്പിക്കുന്ന ചില സംഖ്യകളുള്ള 2 തിരശ്ചീന വരകളുണ്ട് ഇത് ബന്ധിപ്പിക്കേണ്ട പിന്നുകളെ സൂചിപ്പിക്കും ആദ്യത്തെ നെറ്റ് 2 ബന്ധിപ്പിക്കേണ്ട പിന്നുകളെ സൂചിപ്പിക്കുന്നു കൂടാതെ 3 ബന്ധിപ്പിക്കേണ്ടതും 0 എന്നാൽ കണക്ഷൻ ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് 2 പട്ടികകളാൽ പ്രതിനിധീകരിക്കാം മുകളിലും താഴെയുമുള്ള 1 2 0 2 3 ഒരു ആദ്യ പട്ടികയാണ് 3 3 1 1 0 എന്നിവയാണ് രണ്ടാമത്തെ പട്ടിക അതിനാൽ ഏതെങ്കിലും ചാനൽ റൂട്ടിംഗ് നടപ്പിലാക്കാൻ നിങ്ങൾ ഒരു പ്രോഗ്രാം എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് അൽഗരിതങ്ങളുടെ ഉദാഹരണങ്ങളാണ് അപ്പോൾ ഇൻപുട്ട് പ്രശ്നം നിങ്ങൾക്ക് 2 വൺ ഡൈമൻഷണൽ അറേകൾ കൊണ്ട് പ്രതിനിധീകരിക്കാം കൂടാതെ സാധ്യമായ ഒരു പരിഹാരം ഇതാണ് നിർവചന ശാഖ ഒരു ലംബ വയർ സെഗ്മെന്റാണെന്നും ട്രങ്കും ട്രാക്കുകളും തിരശ്ചീന വയർ സെഗ്മെന്റുകളാണെന്നും നിങ്ങൾ ഓർക്കുന്നത് പോലെയാണ് ഇവയെന്ന് ഇവിടെ നിങ്ങൾ കാണുന്നു അതിനാൽ ഇവ ശാഖകളാണ് നീല ശാഖകൾ ഇത് ട്രങ്കുകൾ ആണ് പക്ഷേ ട്രാക്ക് എന്നാൽ തിരശ്ചീന വരി എന്നാണ് അർത്ഥമാക്കുന്നത് ട്രങ്ക് തിരശ്ചീന വയർ സെഗ്മെന്റാണ് അപ്പോൾ എന്താണ് ട്രാക്ക് ഇവിടെ ട്രാക്ക് ചെയ്യുക ഞങ്ങൾക്ക് ലഭ്യമായ 3 ട്രാക്കുകളാണ് ഞാൻ പറയുന്നത് എന്നാൽ 3 ട്രാക്കുകളിൽ ഞങ്ങൾ 3 ട്രങ്കുകൾ നിരത്തി ട്രാക്ക് എന്നാൽ വരികളിലും ട്രങ്കുകളിലും നമുക്ക് ലഭ്യമായ ഇടം എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ ഇത് ഞാൻ ഇതിനകം സൂചിപ്പിച്ചിട്ടുണ്ട് അതിനാൽ ചാനൽ റൂട്ടറിന്റെ ചുമതല ട്രാക്കുകളിലേക്ക് നെറ്റ് തിരശ്ചീന സെഗ്മെന്റുകൾ നൽകുകയും വ്യത്യസ്ത ട്രാക്കുകളിൽ സ്ഥാപിക്കാവുന്ന ഒരേ നെറ്റിന്റെ തിരശ്ചീന സെഗ്മെന്റുകളെ ബന്ധിപ്പിക്കുന്നതിന് ലംബ സെഗ്മെന്റുകൾ നൽകുകയും ചില തിരശ്ചീന വലകളിലേക്ക് നെറ്റ് ടെർമിനലുകൾ നൽകുകയും ചെയ്യുക എന്നതാണ് സെഗ്മെന്റുകൾ ചാനൽ ഉയരം കുറയ്ക്കുക എന്നതാണ് ലക്ഷ്യം തിരശ്ചീനവും ലംബവുമായ ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് നമുക്ക് പിന്നീട് കാണാം അതിനാൽ ഈ നിയന്ത്രണങ്ങൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം 2 വലകളുടെ തിരശ്ചീന സ്പാൻ പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയാണെങ്കിൽ വലകൾ പ്രത്യേക ട്രാക്കുകളിലേക്ക് നിയോഗിക്കണമെന്ന് തിരശ്ചീന നിയന്ത്രണത്തിൽ പറയുന്നു എനിക്ക് ഇതുപോലൊരു ചാനൽ റൂട്ടിംഗ് പ്രശ്നമുണ്ടെന്ന് കരുതട്ടെ നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നെറ്റ് ഒന്ന് ഇവിടെയും ഇവിടെയും ആണെന്ന് ഞാൻ കാണുന്നു അതിനാൽ നെറ്റ് 1 ന്റെ സ്പാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിനാൽ നെറ്റ് 2 ഇവിടെയും ഇവിടെയും ഇവിടെയും നെറ്റ് 2 ഇവിടെയും ഉണ്ട് അതിനാൽ ശ്രേണികൾക്കിടയിൽ ഒരു ഓവർലാപ്പ് ഉണ്ട് നിങ്ങൾക്ക് ഒരേ ട്രാക്കിൽ 1 ഉം 2 ഉം ലേഔട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഇതിനർത്ഥം നിങ്ങൾക്ക് കുറഞ്ഞത് 2 ട്രാക്കുകൾ ആവശ്യമാണ് അതിനാൽ HCG തിരശ്ചീന നിയന്ത്രണ ഗ്രാഫ് ഒരു ഗ്രാഫാണ് അവിടെ ലംബങ്ങൾ നെറ്റ് നമ്പറുകളെ സൂചിപ്പിക്കുന്നു ചില കോളത്തിൽ എവിടെയെങ്കിലും 2 വലകൾ മുറിച്ചാൽ അരികുകൾ നിലനിൽക്കും ഉദാഹരണത്തിന് 4 നും 5 നും ഇടയിൽ അരികില്ല 5 ഇവിടെ നിന്ന് ഇങ്ങോട്ട് ആണെന്ന് നോക്കാം കൂടാതെ 4 ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കവലയില്ല ആവശ്യമെങ്കിൽ അവ ഒരേ ട്രാക്കിൽ സ്ഥാപിക്കാം അതിനാൽ ഇതാണ് തിരശ്ചീന നിയന്ത്രണ ഗ്രാഫ് അപ്പോൾ നമുക്ക് വെർട്ടിക്കൽ കൺസ്ട്രെയിന്റ് എന്ന് വിളിക്കുന്നു അവിടെ മുകളിലെ ടെർമിനൽ i ഉം താഴെയുള്ള ടെർമിനൽ j ഉം ഉള്ള ഒരു കോളം ഉണ്ടെങ്കിൽ അതിനർത്ഥം j ന് മുകളിലുള്ള ട്രാക്ക് നെറ്റ് ഐ നൽകണം എന്നാണ് ഇത് നമുക്ക് പിന്നീട് ഉദാഹരണങ്ങളിലൂടെ നോക്കാം എന്നാൽ ലംബമായ നിയന്ത്രണം ഇതുപോലെയാണ് വീണ്ടും ഇതാണ് ചാനൽ റൂട്ടിംഗ് പ്രശ്നമെങ്കിൽ ഒന്ന് 3 ന് മുകളിലാണെന്ന് നിങ്ങൾ പറയുന്നു 0 എന്നത് കണക്ഷനുകളല്ല അതിനാൽ ഇത് അവഗണിക്കുക 2 എന്നത് 1 ന് മുകളിലാണ് 2 എന്നത് 5 ന് മുകളിലാണ് 1 എന്നത് 3 ന് മുകളിലാണ് അതിനാൽ ഈ ഗ്രാഫിൽ അരികുകൾക്ക് 1 ന് 3 ന് മുകളിൽ ദിശകൾ ഉണ്ടായിരിക്കും 1 മുതൽ 3 വരെ ഒരു അമ്പടയാളം ഉണ്ടാകും 2 എന്നത് 1 ന് മുകളിലാണ് അതിൽ നിന്ന് ഒരു അമ്പടയാളമുണ്ട് 2 മുതൽ 1 വരെ ഇതുപോലെ ഇതൊരു ലംബ നിയന്ത്രണ ഗ്രാഫാണ് ഈ ഗ്രാഫിൽ സൈക്കിളും അടങ്ങിയിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും ഒന്ന് 4 ന് മുകളിൽ 4 2 ന് മുകളിൽ ഇവിടെ എവിടെയോ 2 1 ന് മുകളിൽ 2 എന്നത് 1 ന്റെ മുകളിലാണ് 1 എന്നത് 4 ന്റെ മുകളിലാണ് 4 എന്നത് 2 ന്റെ മുകളിലാണ് അതിനാൽ VCG യിലും സൈക്കിളുകൾ ഉണ്ടാകാം അതിനാൽ ചാനൽ റൂട്ടിംഗ് പ്രശ്നത്തിന് ഈ HCG VCG എന്നിവ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞങ്ങളുടെ അടുത്ത പ്രഭാഷണങ്ങളിൽ നോക്കാം